ഒരു അറേയിലെ ഒരു വാല്യൂവിനായി തിരയുന്ന പ്രോബ്ലം നമുക്ക് നോക്കാം പൊതുവേ ഒരു കൂട്ടം എലെമെന്റുകളുടെ ഒരു ശേഖരത്തിൽ ഒരു പ്രത്യേക എലമെന്റ് K ഉണ്ടോ എന്ന് കണ്ടെത്തുക എന്നതാണ് സെർച്ചിങ് പ്രോബ്ലം കൂടാതെ ഈ കൂട്ടത്തിലുള്ളത് പൂർണ്ണസംഖ്യകൾ മാത്രമാണെന്ന് നമ്മൾ അനുമാനിക്കുന്നു അവിടെ ഒരു എലമെന്റ് മറ്റൊരു എലെമെന്റിനേക്കാൾ കുറവോ കൂടുതലോ ആണെന്ന് നമുക്ക് പറയാൻ കഴിയും അതിനാൽ ഈ എലെമെന്റുകളെ ഒരു പ്രത്യേക ഓർഡറിൽ ക്രമീകരിക്കുവാൻ കഴിയും അത്തരം എലെമെന്റുകളുടെ കൂട്ടങ്ങളെ രണ്ട് വ്യത്യസ്ത രീതികളിൽ ഒരു അറേയായും ലിസ്റ്റായും നമുക്ക് സൂക്ഷിക്കാൻ കഴിയുമെന്ന് നമ്മൾ ഇതിനകം കണ്ടു നമ്മൾ അതിനെ ഒരു അറേയായി അല്ലെങ്കിൽ ഒരു ലിസ്റ്റായി നിലനിർത്തുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് നമുക്ക് ഘടകങ്ങൾ ആക്സസ് ചെയ്യാനാകുന്ന രീതി വ്യത്യസ്തമാണ് അതിനാൽ നമ്മൾ ചോദിച്ചേക്കാവുന്ന ആദ്യ ചോദ്യം അറേയയാണോ ലിസ്റ്റായാണോ എന്നതിനനുസരിച് സെർച്ചിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം എലെമെന്റുകൾ ക്രമത്തിൽ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ഉണ്ടെങ്കിൽ ആരോഹണ അല്ലെങ്കിൽ അവരോഹണ ക്രമം ഏതെങ്കിലും കാര്യത്തിൽ സഹായിക്കുമോ ഇത്തരത്തിൽ ക്രമീകരിച്ചതും ക്രമരഹിതമായിട്ടുള്ളതുമായ അറേകളിലെ സെർച്ചിങ് ഒരുപോലെ തന്നെയാണോ ഒരു ക്രമവും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് മാർഗമില്ല നമുക്ക് 0 മുതൽ n 1 വരെയുള്ള ഒരു അറേ ഉണ്ട് അതിനാൽ നമ്മൾ എല്ലാ എലെമെന്റുകളും നോക്കണം കാരണം K എവിടെയാണെന്ന് നമുക്ക് അറിയില്ല അതിനാൽ അതിനുള്ള വ്യവസ്ഥാപിത മാർഗം 0 യിൽ ആരംഭിച്ച് n 1 വരെയുള്ള എല്ലാ എലെമെന്റുകളും സ്കാൻ ചെയ്യുക എന്നതാണ് ഈ ലൂപ്പ് സ്കാൻ ചെയ്യാനായുണ്ട് ഈ സ്കാൻ ഒന്നുകിൽ സെർച്ച് എലമെന്റ് കണ്ടെത്താതെ അവസാനത്തിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനത്ത് Ai Kക്ക് തുല്യമാണെന്ന് കാണുമ്പോഴോ അവസാനിക്കും അതിനെ ആശ്രയിച്ച് ഒന്നുകിൽ നമ്മളുദ്ദേശിച്ച എലെമെന്റ്കണ്ടെത്തിയെന്നു പറയുകയും ആ എലെമെന്റ് ന്റെ അറേയിലെ പൊസിഷൻ തിരിച്ചയക്കുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ An 1നു മുകളിൽ പോയിയെന്ന് പറയുകയും അസാധുവായി ഒരു പൊസിഷനെ കാണിക്കുന്നതിന് 1 തിരിച്ചയക്കുകയും ചെയ്യും K A യുടെ ഒരു ഘടകമല്ലാത്തപ്പോഴാണ് ഏറ്റവും മോശമായ അവസ്ഥ സംഭവിക്കുന്നതെന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ് K Aയിൽ ഇല്ലായെന്ന് നിർണ്ണയിക്കാൻ നമുക്ക് A0 മുതൽ An 1 വരെ സ്കാൻ ചെയ്യേണ്ടതാണ് കാരണം ഏത് സ്ഥാനമാണ് K യുടേതെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല അതിനാൽ ഇതിനർത്ഥം ഏറ്റവും മോശമായ സാഹചര്യത്തിൽ സോർട് ചെയ്യാത്ത ഒരു അറേയിൽ ഒരു മൂലകത്തിനായി സെർച്ച് ചെയ്യാൻ ലീനിയർ സമയം എടുക്കുന്നു എന്നാണ് തീർച്ചയായും ഇത് ഒരു അറേയാണോ അതോ ഒരു ലിസ്റ്റാണോ എന്നത് ഇപ്പോൾ പ്രശ്നമല്ല കാരണം ഒരു ലിസ്റ്റിൽ ഈ കാര്യത്തിനെ ലീനിയർ സമയം ആവശ്യമുണ്ടെന്നു നമ്മൾ കണ്ടതാണ് മറുവശത്ത് അറേ സോർട് ചെയ്യപ്പെട്ടതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സെർച്ച് നടത്താനാകും നമുക്ക് അറിയാവുന്നത് ഘടകങ്ങൾ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്നാണ് അതിനാൽ നമ്മൾ അറേയുടെ നടുവിലുള്ള ഘടകം അന്വേഷിക്കുകയും അത് K ക്ക് തുല്യമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക K ക്ക് തുല്യമാണെങ്കിൽ നമ്മൾ അത് കണ്ടെത്തി അത് ഇവിടെയുള്ള മൂല്യത്തേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഈ പകുതി മാത്രമേ തിരയേണ്ടതുള്ളൂ വലുതാണെങ്കിൽ മാത്രം ഈ പകുതിയിൽ തിരഞ്ഞാൽ മതി ഇത് നമ്മൾ എല്ലായ്പ്പോഴും അവബോധപൂർവ്വം ചെയ്യുന്ന ഒന്നാണ് ഒരു നിഘണ്ടുവിൽ നമ്മൾ വാക്കുകൾ തിരയുന്നത് ഇങ്ങനെയാണ് അതായത് നമ്മൾ തിരയുന്ന അറേയുടെ മധ്യഭാഗം എടുക്കുന്നു മിഡ് പോയിന്റ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഘടകം ആണെങ്കിൽ അത് കണ്ടെത്തി അല്ലാത്തപക്ഷം നമ്മൾ തിരയുന്ന മൂല്യത്തെയും ആ മധ്യബിന്ദുവിൻറെ മൂല്യത്തെയും ആശ്രയിച്ച് നമ്മൾ താഴത്തെ പകുതി അല്ലെങ്കിൽ മുകളിലെ പകുതി സെർച്ച് ചെയ്യുന്നു അതിനാൽ ഇതിന് നിങ്ങളിൽ പലർക്കും ഇതിനകം അറിയാവുന്ന ഒരു പേരുണ്ട് ഇതിനെ ബൈനറി സെർച്ച് എന്ന് വിളിക്കുന്നു ബൈനറി സെർച്ചിനായി ഒരു ലളിതമായ റെക്കേർസിവ് അൽഗോരിതം നമുക്കുണ്ട് പൊതുവേ ഇത് ഒരു അറേയിൽ തിരയുന്നു നമ്മൾ തിരച്ചിൽ നടത്തുമ്പോൾ സെർച്ച് എത്രത്തോളം പുരോഗമിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് വ്യത്യസ്ത സെഗ്മെന്റുകൾ തിരയുന്നു അതിനാൽ പൊതുവായ ബൈനറി സെർച്ചിൽ ഒരു അറേയും രണ്ട് എൻഡ് പോയിന്റു കളും സെർച്ച് ചെയ്ത് കണ്ടെത്തേണ്ട ഒരു ഘടകവും എടുക്കുന്നു l ഇടതുഭാഗത്തുള്ള എൻഡ്പോയന്റും r വലതുഭാഗത്തുള്ള എൻഡ്പോയന്റും ആണെങ്കിൽ എല്ലായ്പ്പോഴും സെർച്ച് നടത്തുന്നത് അറേയുടെ ഇൻഡക്സ് l മുതൽ ഇൻഡക്സ് r 1 വരെയുള്ള ഭാഗത്തായിരിക്കും അതിനാൽ l ഉം r ഉം യഥാർത്ഥത്തിൽ ഒന്നുതന്നെയാണെങ്കിൽ നമ്മുടെ അറേ ശൂന്യമായിരിക്കും കാരണം l മുതൽ r 1 വരെ യഥാർത്ഥത്തിൽ ഘടകങ്ങളില്ലാത്ത ഒന്നാണ് അതിനാൽ സെർച്ച് എലമെന്റ് കണ്ടെത്തിയില്ലെന്ന് നമ്മൾ പറയുന്നു നമ്മൾ തിരയുന്ന റേഞ്ച് ശൂന്യമാകുമ്പോൾ അറേയിൽ തീർച്ചയായും ഘടകം അടങ്ങിയിരിക്കില്ല സമയം കാണുക 0427 അല്ലാത്തപക്ഷം l ഉം r ഉം തമ്മിലുള്ള മിഡ് പോയിന്റ് കണ്ടെത്തുന്നതിനായി നമ്മൾ l r ഇവയുടെ തുക എടുത്ത് 2 കൊണ്ട് ഹരിക്കുന്നു എപ്പോഴും ഇന്റിജർ ഡിവിഷൻ ആണ് അഭികാമ്യം ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ മിഡ് പോയിന്റ് കണ്ടെത്തിയെന്ന് അനുമാനിക്കുന്നു അതിനാൽ നമ്മൾ ആഗ്രഹിക്കുന്ന വാല്യൂ മധ്യഭാഗത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെയാണെങ്കിൽ സെർച്ച് എലമെന്റ് ലഭിച്ചെന്നുപറഞ്ഞു പ്രോഗ്രാം അവസാനിപ്പിക്കാം അല്ലാത്തപക്ഷം നമുക്ക് ആവശ്യമുള്ള വാല്യൂ മിഡ് പോയിന്റിനേക്കാൾ ചെറുതാണെങ്കിൽ നമ്മൾ ഇടത്തേക്ക് പോകുകയും നമുക്ക് ആവശ്യമുള്ള വാല്യൂ മിഡ് പോയിന്റിനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ വലത്തേക്ക് പോകുകയും ചെയ്യും അതിനാൽ ഇത് ഇടത്തുനിന്ന് mid 1 ലേക്ക് അല്ലെങ്കിൽ mid1 ൽ നിന്ന് വലത്തേയ്ക്ക് പോകുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സെർച്ചിൽ നിന്ന് mid നെ നമ്മൾ ഒഴിവാക്കുന്നു അതിനാൽ ആദ്യസാഹചര്യത്തിൽ സെർച്ച് l ൽ നിന്ന് മിഡ് 1 ലേക്ക് നയിക്കുന്നു കാരണം അതാണ് നമ്മുടെ അനുമാനം നമ്മൾ മിഡ് എന്ന് പറഞ്ഞാൽ അത് മിഡ് 1 വരെ പോകും ഇത് mid 1 ൽ ആരംഭിച്ച് r 1 ലേക്ക് പോകുന്നു അതായത് യഥാർത്ഥത്തിൽ സെർച്ച് ചെയ്യേണ്ടത് l ൽനിന്ന് r 1 ലേക്ക് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് mid നെ ഒഴിവാക്കി ബാക്കിയുള്ള മുഴുവൻ ഭാഗവും ഇനി സെർച്ച് ചെയ്യാനുണ്ട് അതിനാൽ ബൈനറി സെർച്ചിന്റെ നിർണായക നേട്ടം ഓരോ ഘട്ടത്തിലും നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഇടവേളയുണ്ട് ചില ഘട്ടങ്ങളിൽ നമ്മൾ 1 സൈസുള്ള ഇടവേളയിൽ എത്തും തുടർന്ന് നമുക്ക് 0 ന്റെ ഇടവേള ലഭിക്കും ഈ രീതിയുടെ ഏറ്റവും വലിയ നേട്ടം നമുക്ക് ഉടനടി ഉത്തരം ലഭിക്കും എന്നതാണ് അത്തരം റെക്കേർസിവ് പ്രവർത്തനങ്ങൾക്കായി നമ്മൾ നേരത്തെ കണ്ടതുപോലെ റെക്കരൻസ് എക്സ്പ്രഷനുകൾ നമുക്ക് എഴുതാം വലിയ വാല്യൂകൾക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരേ എക്സ്പ്രഷനെ ചെറിയ വാല്യൂകൾ ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുന്ന ഒന്നാണ് റെക്കരൻസ് അടിസ്ഥാനപരമായി T എന്നാൽ n സൈസുള്ള ഒരു ലിസ്റ്റിലോ ഒരു അറേയിലോ തിരയാൻ എടുക്കുന്ന സമയമാണ് T എന്നത് 1 ആണ് അതിനാൽ നമുക്ക് ഒരു ശൂന്യമായ അറേ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല കൂടാതെ T പൊതുവായി കണ്ടെത്താനും താരതമ്യം ചെയ്യാനുമുള്ള ഒരു ഘട്ടമാണ് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ mid പോയിന്റുമായി താരതമ്യം ചെയ്ത് മുകളിലേക്കും താഴേക്കും പോകാനും തീരുമാനിക്കാനുള്ള ഒരു ഘട്ടങ്ങമാണ് അതായത് ആ പ്രവർത്തനങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്ന പകുതി തിരയാനുള്ള സമയവുമാണ് ഓർക്കുക നമ്മൾ ഇടത് പകുതി നോക്കുന്ന അവസരത്തിൽ ഒരിക്കലും വലതുപകുതി നോക്കില്ല അത്തരം റെക്കരൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു മാർഗം അത് ചുറ്റഴിക്കുക എന്നതാണ് നമുക്ക് T എന്നാൽ 1Tn2 ആണ് അതിനാൽ നമ്മൾ n2 എടുത്ത് n22 എന്നതിനെ n4 എന്നെഴുതുന്നതിനു പകരം n22 എഴുതുന്നു കാരണം ഞാൻ ഒരിക്കൽ കൂടി ചെയ്താൽ അത് 1 1 122 ആയിരിക്കും അതിനാൽ പൊതുവെ ഇത് k തവണ ചെയ്താൽ എനിക്ക് ഇവിടെ k എണ്ണം 1കൾ ഉണ്ടായിരിക്കും ഞാൻ 3 തവണ ചെയ്താൽ എനിക്ക് 1 1 1 T n23 അല്ലെങ്കിൽ 3 T n23 എന്ന് കിട്ടും അതിനാൽ k ഘട്ടങ്ങൾക്ക് ശേഷം kTn2k ആയിരിക്കും n2k 1 ആയാൽ അടുത്ത ഘട്ടത്തിൽ നമുക്ക് T ലഭിക്കും അപ്പോൾ ഇത് എപ്പോഴാണ് 1 ആകുന്നത് n 2k ആയിരിക്കുമ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ k log2 ആയിരിക്കുമ്പോൾ അതിനാൽ എനിക്ക് log2 ലഭിക്കുമ്പോൾ ഇത് T ആകും അടുത്ത ഘട്ടത്തിൽ ഇത് 1T ആകും അതിനാൽ ഇത് log n 1 ആകും ബൈനറി സെർച്ചിന്റെ കോംപ്ലക്സിറ്റി log n മാത്രമാണ് അതിനാൽ ഈ രീതിയിൽ ഒരു സോർട് ചെയ്യാത്ത അറേയുടെ ലീനിയർ സെർച്ചിനെ ഒരു സോർട് ചെയ്ത അറേയുടെ ലോഗരിഥമിക് സെർച്ച് ആയി നമുക്ക്മെച്ചപ്പെടുത്താം മുൻ യൂണിറ്റിൽ നമ്മൾ അറേകളെക്കുറിച്ചും ലിസ്റ്റിനെക്കുറിച്ചും സൂചിപ്പിച്ചു ലിസ്റ്റിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ അറേകളിൽ പ്രവർത്തിക്കില്ല തിരിച്ചും ഇത് അറേകൾക്ക് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഉദാഹരണമാണ് മിഡ്പോയിന്റിനുള്ള സ്ഥിരമായ സമയം കണ്ടെത്താനായാൽ മാത്രമേ മിഡ് പോയിന്റ് നോക്കുകയും തുടർന്ന് ഇടത്തേക്ക് പോകുകയും ചെയ്യുക എന്ന ആശയം പ്രവർത്തിക്കൂ അത് കണ്ടെത്താനായി സമയം ചിലവഴിക്കേണ്ടിവന്നാൽ ഈ റെകരേൻസ് ലഭിക്കാതെ പോവുകയും 1 Tn2 എന്നത് nTn2n2 ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുക ഒരു ലീനിയർ ആയിരിക്കും അതിനാൽ ഒരു ലിസ്റ്റിനായുള്ള ബൈനറി സെർച്ച് യഥാർത്ഥത്തിൽ ലീനിയർ ആയി മാറും കാരണം ഞങ്ങൾക്ക് മിഡ്പോയിന്റിലേക്ക് പോകാൻ സമയമെടുക്കും ഇത് അറേകളിൽ മാത്രം പ്രവർത്തിക്കുന്നു എന്നാൽ ശരിക്കും ബൈനറി സെർച്ചിന്റെ ശ്രദ്ധേയമായ കാര്യം സീക്വൻസിന്റെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രം നോക്കി ഒരു വാല്യൂ ഇല്ലെന്ന് നമുക്ക് നിഗമനത്തിലെത്താം ഉദാഹരണത്തിന് 210 എന്നാൽ 1024 ആണെന്ന് നമുക്കറിയാം അതിനാൽ ഞാൻ നിങ്ങൾക്ക് 1000 വാല്യൂകൾ നൽകിയാൽ നിങ്ങൾക്ക് 10 അല്ലെങ്കിൽ 11 എണ്ണം മാത്രം നോക്കി ഒരു പ്രത്യേക വാല്യൂ അവിടെയില്ലെന്ന് പറയാം അതായത് ഒരു വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ നോക്കേണ്ടതില്ലാത്ത വാല്യൂകൾ ആകെയുള്ളതിന്റെ ഒരു വലിയ ഭാഗമാണ് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ബൈനറി സെർച്ചിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണെന്ന് മനസ്സിലാക്കാം